സോളിഡ് വർക്കുകൾ തുടരുന്നുഎൻപിടെൽ എല്ലാവര്ക്കും സ്വാഗതം നൽകിയ എഞ്ചിനീയറിംഗ് ഡ്രോയിംഗ് കമ്പ്യൂട്ടർ ഗ്രാഫിക്സ് എന്നിവയെക്കുറിച്ചുള്ള നമ്മളുടെ ഓൺലൈൻ പ്രഭാഷണങ്ങളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ 3D ജ്യാമിതികൾ നിർമ്മിക്കുന്നതിന് ചില സോളിഡ് വർക്ക് കമാൻഡുകൾ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നമ്മൾ പഠിക്കും ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും നമ്മൾ നിർമിക്കുന്നത് ഒരു സിലിണ്ടർ ഒരു ട്യൂബ് ഒരു ചൂള എന്നിവ സോളിഡ് വർക്കുകൾ ഉപയോഗിച്ച് എങ്ങനെ നിർമ്മിക്കും എന്നതാണ് അതിനുശേഷം നമ്മൾ അസംബ്ലി ഡ്രോയിംഗുകളുമായി പോകും ഒരു ഷാഫ്റ്റ് ഡിസ്ക് ക്രമീകരണം എന്ന് പേരുള്ള എന്തെങ്കിലും നിർമ്മിക്കുന്നു മറ്റൊന്ന് ചതുരാകൃതിയിലുള്ള ഒരു ബാർ ഫിറ്റ് ആണ് ഇവ എങ്ങനെ കൂട്ടിച്ചേർക്കാം എന്ന് നമ്മുക്ക് കാണാം അതിനാൽ നമ്മളുടെ സോളിഡ് വർക്കുകൾ ഇരട്ട ക്ലിക്കുചെയ്തതിനുശേഷം ഒരു പുതിയ ഭാഗം ഡ്രോയിംഗ് തുറന്നാൽ നമുക്ക് ഈ വെളുത്ത ശൂന്യമായ സ്ക്രീൻ ലഭിക്കും ഇതിൽ ഒരു 3 ഡിമെൻഷനൽ സിലിണ്ടർ നിർമ്മിക്കാൻ നമ്മൾ ഒരു റിവോൾവ് കമാൻഡ് ഉപയോഗിക്കുന്നു ആദ്യത്തേത് നമ്മൾ എല്ലായ്പ്പോഴും ആരംഭിക്കേണ്ടത് മുൻവശത്തെ തലം മുകളിലെ തലം അല്ലെങ്കിൽ വലത് തലം എന്നിവയിൽ നിന്നാണ് അതിനാൽ ഫ്രണ്ട് പ്ലെയിൻ ക്ലിക്ക് ചെയ്താൽ നമ്മൾ സാധാരണ പോകുന്നത് ഫ്രണ്ട് പ്ലെയിനിലേക്കാണ് സിലിണ്ടർ നമ്മൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ഒരു സർക്കിളിൽ സ്കെച്ച് മോഡ് എവിടെയായിരുന്നാലും ചില പോയിന്റ് കണ്ടെത്താനും 25 യൂണിറ്റ് ആരം മാറ്റംവരുത്തുക എക്സ്ട്രൂഡ് ബോസ് സവിശേഷതകളിലേക്ക് പോകുക 50 യൂണിറ്റുകളിലേക്ക് പോയി ഓക്കേ ക്ലിക്കുചെയ്യുക തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക എക്സ്ട്രൂഡ് ബോസ് ബേസ് ഉപയോഗിച്ച് സിലിണ്ടറുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു മാർഗമാണിത് റിവോൾവ് കമാൻഡ് ഉപയോഗിച്ച് നിർമ്മിക്കാനും കഴിയും ഉദാഹരണത്തിന് നമ്മുക്ക് ഒരു മധ്യരേഖ ഉണ്ടെങ്കിൽ നമുക്ക് ഒരു ദീർഘചതുരം നിർമ്മിക്കാൻ കഴിയുമെങ്കിൽ ആ ദീർഘചതുരം 360 ഡിഗ്രി കറക്കിക്കൊണ്ട് നമ്മൾ ഒരു സിലിണ്ടർ നിർമ്മിക്കാനുള്ള അവസ്ഥയിലായിരിക്കും അതാണ് നമ്മൾ കാണുന്നത് അതിനാൽ പുതിയൊരെണ്ണം ഭാഗം ശരി മുൻ പ്രതലത്തിലേക്ക് പോകുക സാധാരണമാണ് ഒന്നാമതായി സ്കെച്ച് മോഡിൽ ഒരു മധ്യരേഖ വരയ്ക്കുക ഇത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ ഒരു സിലിണ്ടർ കറക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ഒരു പക്ഷേ സ്മാർട്ട് ഡൈമെൻഷൻ ഉപയോഗിച്ചു ഒരു വര വരയ്ക്കുന്നു അതിനാൽ മികച്ച നിയന്ത്രണം ലഭിക്കുന്നത് 25 യൂണിറ്റ് ദൂരത്തിൽ നമ്മൾ വരക്കുന്നതാണ് എന്നിട്ട് അവിടെ നിന്ന് അവിടെ വരെ നീട്ടുക സ്മാർട്ട് അളവുകൾ ഉപയോഗിക്കുക അത് 75 യൂണിറ്റുകളാക്കുക തുടർന്ന് വീണ്ടും ഒരു ലൈൻ നിർമ്മിക്കുക അവിടെ പോകുക അതിനാൽ റിവോൾവ് കമാൻഡിനായി നമ്മുക്ക് എല്ലായ്പ്പോഴും അടച്ച ഒബ്ജക്റ്റുകൾ ആവശ്യമാണ് അത് ചെയ്യുന്നതിനായി കണ്ട്രോൾ ബട്ടൺ ഉപയോഗിക്കുക ആ വരി പിടിക്കുക അതുപോലെ നിയന്ത്രണ ബട്ടൺ കൺട്രോൾ ഹോൾഡ് ലൈൻ എന്നിവ സൂക്ഷിച്ചുകൊണ്ട് മറ്റ് വരിയിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ അക്ഷത്തിന് ചുറ്റുമുള്ള സവിശേഷതകളിലേക്ക് ചുറ്റിക്കറങ്ങുക ബോസ് ബേസ് നമ്മൾ സ്വപ്രേരിതമായി വരി 1 ആയി തിരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്നു കാരണം നമ്മൾ നിർമ്മിച്ച ആദ്യ വരി ആ മധ്യരേഖയാണ് അതിനാൽ ഇത് യാന്ത്രികമായി തിരഞ്ഞെടുത്തു അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ആ വരിയിൽ ക്ലിക്കുചെയ്യുക അത് അവിടെ തിരഞ്ഞെടുക്കപ്പെടും തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക ഇത് ഒരു സിലിണ്ടർ നിർമ്മിക്കുന്നതിനുള്ള മറ്റൊരു മാർഗമാണ് ഇപ്പോൾ ഇത് കറങ്ങുന്നു നമുക്ക് അച്ചുതണ്ട് സമമിതി ജ്യാമിതികൾ നിർമ്മിക്കാൻ കഴിയും നമുക്ക് ഇത് ഈ രീതിയിൽ ആരംഭിക്കാം പുതിയൊരെണ്ണം ഇതുവഴി നിർമിക്കാം ഭാഗം ശരി ക്ലിക്കുചെയ്യുക ഇപ്പോൾ മുൻ പ്രതലത്തിലേക്ക് പോകുക ഇപ്പോൾ നമ്മൾ ഒരു ആക്സിസ് സിമെട്രിക് ഒബ്ജക്റ്റ് ലൈൻ നിർമ്മിക്കും ഒന്നാമതായി ഒരു സെന്റർ ലൈൻ ഇത് എല്ലായ്പ്പോഴും ആദ്യത്തെ വരിയാണ് ഇനി മറ്റൊരു വരി നിർമ്മിക്കുക കാരണം ഒരു പൊള്ളയായ സിലിണ്ടർ ട്യൂബ് നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി നമ്മൾ ഒരു മധ്യരേഖയും ചതുരാകൃതിയിലുള്ള പാച്ചും നിർമിക്കുക അതിനായി നിയന്ത്രണ ബട്ടൺ ഉപയോഗിക്കുക ക്ലിക്കുചെയ്യുക തിരഞ്ഞെടുക്കുക ഇപ്പോൾ സവിശേഷതകളിലേക്ക് പോയി ആ മധ്യരേഖയ്ക്ക് മുകളിലുള്ള റിവോൾവ് ബോസ് ബേസ് ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഓക്കേ ക്ലിക്കുചെയ്യുക നമ്മുക്ക് പൊള്ളയായ സിലിണ്ടർ ഉണ്ട് സ്റ്റെപ്പ്ഡ് സിലിണ്ടർ ഉണ്ടാക്കാൻ നമ്മുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ എന്തുചെയ്യണം ജ്യാമിതികൾ സംരക്ഷിക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമില്ലെങ്കിൽ സംരക്ഷിക്കരുത് ഓക്കേ ക്ലിക്കുചെയ്യുക സംരക്ഷിക്കരുത് ഇപ്പോൾ പുതിയൊരെണ്ണം തുറക്കുക റിവോൾവ് ഉപയോഗിച്ച് ഒരു സ്റ്റെപ്പ്ഡ് സിലിണ്ടർ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനായി ഭാഗം ക്ലിക്കുചെയ്യുക സ്കെച്ചിലേക്ക് പോകുക ആദ്യ ഘട്ടം എല്ലായ്പ്പോഴും ഒരു മുൻ പ്രതലത്തിലെ മധ്യരേഖയാണ് അവിടെ നിന്ന് അവിടേക്ക് സ്റ്റെപ്പ്ഡ് സിലിണ്ടർ വരയ്ക്കുക അതിനർത്ഥം നമ്മൾ ഒരു ലൈൻ നിർമ്മിക്കണം താഴേക്ക് പോകുന്നു അവിടെ നിന്ന് വീണ്ടും താഴേക്ക് പോകുന്നു ഓക്കേ ക്ലിക്കുചെയ്യുക അവിടെ നിന്ന് ഇതിലേക്ക് ചേരുക അതിനാൽ ഈ ഒബ്ജക്റ്റ് മുഴുവനും ചെയ്തു ഇപ്പോൾ ഫീച്ചേഴ്സിലേക്ക് പോകുക ബോസ് ബേസ് ചുറ്റുക ഇത് കേന്ദ്രത്തെ ചുറ്റിപ്പറ്റിയാണ് അതാണ് റവല്യൂഷൻ അച്ചുതണ്ട് ഈ വരിയായി നമുക്ക് കാണാൻ കഴിയുന്നത് ഏകദേശം 360 ഡിഗ്രിയിൽ നമ്മുക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നമ്മൾ 360 ഡിഗ്രിയുമായി പോകുന്നു ഇപ്പോൾ താൽപ്പര്യമുള്ളത് 270 ഡിഗ്രി മാത്രമാണെങ്കിൽ 270 ക്ലിക്കുചെയ്യുക തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ നമ്മൾ കറങ്ങുമ്പോൾ അത് 270 ഡിഗ്രി വസ്തുവായതിനാൽ ഈ വസ്തു കാണുന്നു

ഇപ്പോൾ നമുക്ക് ഐസോമെട്രിക് കാഴ്ച നോക്കാം ഐസോമെട്രിക് കാഴ്ച ദൃശ്യവൽക്കരിക്കുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് അവിടെ പോയി അതിൽ ക്ലിക്കുചെയ്യുക ഡയമെട്രിക് വ്യൂ ട്രിമെട്രിക് വ്യൂ പോലുള്ള മറ്റേതെങ്കിലും കാഴ്ച അത് അങ്ങനെയായിരിക്കും ഇപ്പോൾ വ്യത്യസ്ത ഓർത്തോഗ്രാഫിക് കാഴ്ചകൾ കാണാൻ നമ്മുക്ക് ഇവിടെ നമുക്ക് വ്യത്യസ്തമായ ഒറ്റ കാഴ്ച രണ്ട് കാഴ്ചകൾ തിരശ്ചീനമായും രണ്ട് കാഴ്ചകൾ ലംബമായും നാല് കാഴ്ചകൾ നമ്മുക്ക് കാണാം നാല് കാഴ്ചയിൽ ക്ലിക്കുചെയ്യാം ഇവിടെ നമുക്ക് മുൻവശം മുകളിലെ കാഴ്ച ഇടത് വശത്ത് നിന്ന് വലതുഭാഗത്ത് നിന്ന് ഇടത് വശത്തേക്ക് ഇടത് വശത്ത് നമ്മുക്ക് കാണാവുന്നതാണ് കൂടാതെ ട്രിമെട്രിക് കാഴ്ചയും കാണാവുന്നതാണ് അതിനാൽ ഒരു സമയത്ത് എല്ലാ ചിത്രങ്ങളും വ്യത്യസ്ത കാഴ്ചകളായി നമുക്ക് ലഭിക്കും ഇപ്പോൾ നമുക്ക് തിരികെ പോകണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് അവിടെ പോയി ക്ലിക്കുചെയ്യുക എന്നതാണ് ആ ഓരോന്നിലും ഐസോമെട്രിക് കാഴ്ചയിൽ നമ്മുക്ക് കൂടുതൽ താൽപ്പര്യമുണ്ടങ്കിൽ തുടർന്ന് അതിൽ ക്ലിക്കുചെയ്യുക ഈ രീതിയിലാണ് നമ്മൾ നിർമ്മിക്കുന്നത് ഇപ്പോൾ ഒരു പടി പൊള്ളയായ സിലിണ്ടർ ഞങ്ങൾ നിർമ്മിക്കാൻ പോകുകയാണെങ്കിൽ നടപടിക്രമം പുതിയ ഫയൽ ഭാഗത്തേക്ക് പോകുന്നു ഇപ്പോൾ ഒരു പ്രതലത്തിന്റെ മുൻവശത്തെ പ്രതലത്തിൽ ഒരു കേന്ദ്രം വരയ്ക്കുക അവിടെ പോകുക ഇപ്പോൾ ഒരു മധ്യരേഖയിൽ ക്ലിക്കുചെയ്യുക ഇത് പൊള്ളയായിരിക്കണം അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് ക്ലിക്കുചെയ്യുക ഞാൻ ഒരു പൂർണ്ണമായ സ്കെച്ച് നിർമ്മിക്കുകയില്ല പക്ഷേ ഒരു വരി മാത്രമാണ് നമ്മൾ നിർമ്മിക്കുന്നത് എന്താണ് സംഭവിക്കുക എന്ന് കാണുക അതിനാൽ ഇത് ഒരു പൂർണ്ണമായ രേഖാചിത്രമല്ല നമ്മൾ നിർമ്മിച്ച വരികൾ മാത്രം ഇത് അടച്ച ഭാഗമല്ല ഇപ്പോൾ നമ്മൾ എന്തു ചെയ്യും നമ്മൾ എല്ലാഭാഗങ്ങളും തിരഞ്ഞെടുക്കുക ഫീച്ചേഴ്സിലേക്ക് പോകുക ബോസ് ബേസ് കറക്കാൻ ശ്രമിക്കുക എന്നിട്ട് അത് ഒരു അടച്ച സ്കെച്ച് അല്ലാത്തതിനാൽ സ്കെച്ച് നിലവിൽ തുറന്നിരിക്കുന്നു നേർത്തതല്ലാത്ത റെവല്യൂഷൻ ഫീച്ചേഴ്സിലേക്ക് ഒരു അടച്ച സ്കെച്ച് ആവശ്യമാണ് നിങ്ങൾക്ക് ദൃശ്യമായ വിഷ്വലൈസേഷനും മറ്റും നൽകണമെങ്കിൽ നമ്മൾ തിക്നെസ്സ് നൽകണം യാന്ത്രികമായി അടയ്ക്കുന്നതിന് സ്കെച്ച് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടോ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് കാണാം നമ്മൾ അതെ എന്ന് ക്ലിക്കുചെയ്യുകയാണെങ്കിൽ സ്വയം വിഭജിക്കുന്ന സൃഷ്ടിക്കാതെ പ്രൊഫൈൽ അടയ്ക്കാൻ കഴിയില്ല തുടർന്ന് ഇവിടെ യാന്ത്രിക അളവുകൾ തിരഞ്ഞെടുക്കുന്നു അവിടെ 10 മില്ലീമീറ്റർ എന്നുള്ളത് 0 5 മില്ലീമീറ്റർ എന്ന് നൽകാം വളരെ നേർത്ത ഷെൽ ഒന്ന് ഷൂ പോലുള്ള ഒന്ന് നമുക്ക് നിർമ്മിക്കാൻ കഴിയും അതിനാൽനമ്മൾ അടച്ച എന്റിറ്റികളൊന്നും നൽകുന്നില്ലെങ്കിൽ ഈ ബാക്ക് എൻഡ് പ്രോഗ്രാം ചില അളവുകൾ നേടാൻ ശ്രമിക്കുന്നു ഇത് നിർമ്മിക്കാൻ ശ്രമിക്കുന്നുവെന്ന് സ്വയമേവ അനുമാനിക്കുന്നു അതിനാൽ മറ്റ് അളവുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ തിക്നെസ്സ് വളരെ ചെറുതായ ഇത്തരത്തിലുള്ള നാളങ്ങൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അതിനാൽ ഇത് ഒരു കേയിൻ ജല കേയിൻ പോലുള്ള എന്തെങ്കിലും നിങ്ങൾ അടക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് സർക്കിൾ തിരഞ്ഞെടുക്കുക എന്നതാണ് അതിൽ ഭാഗം വീണ്ടും പുറത്തെടുത്ത് പൂരിപ്പിക്കുക അതിനായി നമുക്ക് അത് ശ്രമിക്കാം അതിനാൽ നമുക്ക് മുകളിലെ പ്രതലത്തിലേക്ക് പോകാം ഈ പ്രതലം പ്രത്യേകിച്ചും സാധാരണ നമുക്ക് അവിടെ പോകാം ഇപ്പോൾ സ്കെച്ചിലേക്ക് പോകുക നമ്മൾ ഈ കാര്യം ശ്രദ്ധാപൂർവ്വം തിരഞ്ഞെടുക്കണം ഇപ്പോൾ ഞങ്ങൾ ഒരു സർക്കിൾ വരയ്ക്കുന്നു ഇപ്പോൾ നമുക്ക് അതേ അളവുകൾ കാണാം അത് ചെയ്തുകഴിഞ്ഞാൽ നമ്മൾ എക്സ്ട്രൂഡ് ബോസ് ബേസുമായി പോകുന്നു ഏത് ദിശയിലേക്കാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെന്ന് കാണുക അതിനാൽ അത് വിപരീത ദിശയിൽ ആയിരിക്കണം കൂടാതെ 50 മില്ലീമീറ്റർ 70 മില്ലീമീറ്റർ പോലെയുള്ള ഒബ്ജക്റ്റ് അടയ്ക്കുകയാണങ്കിൽ ഓക്കേ ക്ലിക്കുചെയ്യുക അതുകൊണ്ട് ഖര വസ്തു നിറയും ഇപ്പോൾ പൊള്ളയായ കേയിൻ മാത്രമായാണ് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു സർക്കിൾ സൃഷ്ടിക്കുക ഒരു സിലിണ്ടർ ഭാഗം പോലുള്ളവ നിശ്ചിത അളവിലുള്ള കനം നൽകുക അതിനുശേഷം ഒരു ചതുരാകൃതിയിലുള്ള ഒന്ന് നിർമ്മിച്ച് തിരിക്കുക മറ്റൊരു ഉദാഹരണത്തിലൂടെ നമുക്ക് അത് ചെയ്യാം അതിനാൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു കേയിൻ ശൈലിയിലുള്ള സിലിണ്ടറാണ് നമുക്ക് ഒരു സ്കെച്ച് പരീക്ഷിക്കാം മുൻ പ്രതലത്തിൽ സാധാരണ പോലെ ഒരു മധ്യരേഖാ ഒരു ചൂരൽ ശൈലിയിലുള്ള ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ നമ്മൾ ചെയ്യേണ്ടത് മുകളിൽ നിന്ന് എവിടെയെങ്കിലും ഒരു വരി തിരഞ്ഞെടുക്കുക എന്നതാണ് അത് അവസാനം താഴേക്ക് പോകുന്നു ഇപ്പോൾ ഇത് അടച്ച ഒന്നല്ല അതിനാൽ നിയന്ത്രിക്കുക ഇത് തിരഞ്ഞെടുക്കുക ഇതിൽ ഒന്ന് ഇതും ഇതും തിരഞ്ഞെടുക്കുക ഫീച്ചേഴ്സിലേക്ക് പോകുക ബോസ് ബേസ് ചുറ്റുക കാരണം കനം നമ്മൾ പരാമർശിച്ചിട്ടില്ല ഇത് അടച്ച ഒന്നല്ല 360 ഡിഗ്രി എന്തോ തെറ്റായി സംഭവിച്ചു മുൻ പ്രതലത്തിലേക്ക് പോകുക ഇപ്പോൾ ഒരു ചെറിയ കനം നമുക്ക് നൽകാം ഈ സാഹചര്യത്തിൽ ഓഫ്സെറ്റാണ് ഏറ്റവും മികച്ച ഓപ്ഷൻ ഇപ്പോൾ ഇത് പൂർണ്ണമായ ഒന്നാണ് ഇത് തിരഞ്ഞെടുക്കുക ഫീച്ചേഴ്സിലേക്ക് പോകുക ബോസ് ബേസ് ചുറ്റുക ഓക്കേ ക്ലിക്കുചെയ്യുക

അതിനാൽ നിങ്ങൾ ആണെങ്കിൽ മറുവശത്ത് കണ്ടാൽ അത് അടുത്താണ് അതിനുള്ളിൽ പൊള്ളയായ ഒന്ന് ഉണ്ട് ഇപ്പോൾ ഈ മുഴുവൻ കെയിനിന്റെയും കട്ട് വിഭാഗപരമായ കാഴ്ച നോക്കാം പൊള്ളയായ കെയിനിന്റെ വിഭാഗീയ കാഴ്ച നിങ്ങൾക്ക് കാണാം ഈ രീതിയിലാണ് ഒബ്ജക്റ്റ് നിർമിക്കുന്നത് നമ്മുക്ക് കൺവെർജിങ്ങോ ഡൈവെർജിങ്ങോ ആയ നോസിൽ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ സാധാരണ എൻജിനീയറിങ് നോസിൽ കാണുന്നു ഈ നോസിൽ എപ്പോഴും നിങ്ങൾ വർധന ചെയ്യണമെങ്കിൽ മറ്റ് സ്ഥാനം ഒരു ലൊക്കേഷനിൽ നിന്ന് ഒഴുക്ക് ത്വരിതപ്പെടുത്തുന്നതിന് ആകുന്നു വേഗത നിങ്ങൾ ഈ നോസിലുകൾ ഉപയോഗിക്കുന്നു അതിനാൽ ഇത് ഒരു സാധാരണ പരുക്കൻ സ്കെച്ച് എങ്ങനെ നിർമ്മിക്കാമെന്നതാണ് നിങ്ങൾ കാണാനാണ്പോകുന്നത് സാധാരണ നോസിലുകൾക്ക് ഒരു പ്രത്യേക തരം പ്രവർത്തന ബന്ധമുണ്ട് അവ സംയോജിപ്പിക്കാനും വ്യതിചലിപ്പിക്കാനും കഴിയും അവ രണ്ടും കൺവേർജിംഗ് ഡൈവേർജിംഗ് തരത്തിലുള്ള നോസലുകൾ ആകാം എക്സ്ഹോസ്റ്റ് വാതകങ്ങൾ പുറത്തേക്ക് വരുന്നിടത്തെല്ലാം റോക്കറ്റ് എഞ്ചിനുകൾ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇവയെ നൊസിലുകൾ എന്ന് ഞങ്ങൾ വിളിക്കുന്നു അവയിലൊന്ന് നോസലുകൾ നിർമ്മിക്കുന്നതിനുള്ള ഒരു ലളിതമായ മാർഗ്ഗം ആദ്യം ഒരു മധ്യരേഖ വരയ്ക്കുകയെന്നതാണ് തുടർന്ന് ഒരു സ്പ്ലൈൻ ഉപയോഗിക്കുക നമ്മൾചെയ്യാൻ പോകുന്ന ഏറ്റവും എളുപ്പമുള്ള ഭാഗം സംയോജിക്കുക ആ ഭാഗം നമ്മൾ വ്യതിചലിപ്പിക്കുന്നു അതിനാൽ ഇത് ഒരു പൊള്ളയായ വിടവിലൂടെ ചുറ്റാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ ആവശ്യത്തിനായി ഒരു പൊള്ളയായ വിടവ് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ചെയ്യേണ്ടത് ഇത് തിരഞ്ഞെടുക്കുക ആദ്യം ഒരു ഓഫ്സെറ്റ് നിർമ്മിക്കുക ഈ ദിശയിലല്ല മറിച്ച് വിപരീത ദിശയിലാണ് 1 മില്ലീമീറ്റർ കനം ഒരു ട്യൂബ് പോലെ മതിയായതായിരിക്കണമെന്നില്ല തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ ഭാഗത്തേക്ക് സൂം ചെയ്യുക വരികൾ ചേർക്കുക ഒരുപക്ഷേ അവിടെ നിന്ന് വളരെ ലംബമായ ഒരു ലൈൻ ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതുപോലെ ഈ ഭാഗത്തേക്ക് സൂം ചെയ്യുക ബൈലൈനുകളിൽ ചേരുക അവിടെ നിന്ന് ഇപ്പോൾ നമ്മുക്ക് പൂർണ്ണമായ അടുത്ത ചിത്രമുണ്ട് ഇപ്പോൾ എസ്കേപ്പ് അമർത്തുക ഈ മുഴുവൻ കാര്യങ്ങളും തിരഞ്ഞെടുക്കുക ഫീച്ചേഴ്സിലേക്ക് പോകുക അതിനെ ചുറ്റുക നമ്മുക്ക് ഇത്തരത്തിലുള്ള പ്രത്യേക ആകൃതിയുണ്ട് എഞ്ചിനീയറിംഗ് ഡിസൈനുകളും അക്കങ്ങളും അടിസ്ഥാനമാക്കി സാങ്കേതിക ഡ്രോയിംഗ് നമുക്ക് നിർമ്മിക്കേണ്ടതുണ്ട് നോസലിന്റെ വ്യത്യസ്ത കാഴ്ചകൾ നമുക്ക് നോക്കാം അതിനാൽ ആ ആവശ്യത്തിനായി ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐസോമെട്രിക് കാഴ്ചയിൽ സൂക്ഷിക്കുക ഇതിന്റെ വ്യത്യസ്ത കാഴ്ചകൾ നോക്കൂ അതിനാൽ ഫ്രണ്ട് വ്യൂ ടോപ്പ് വ്യൂ സൈഡ് വ്യൂ ഐസോമെട്രിക് വ്യൂ എന്നിവ നമുക്ക് ലഭിക്കും ഇപ്പോൾ നമ്മൾ അസംബ്ലി ഡ്രോയിംജിലേക്ക് പോകും ഉദാഹരണത്തിന് അസംബ്ലി ഡ്രോയിംഗുകൾ ആദ്യം ചെയ്യേണ്ടതുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് വ്യത്യസ്ത ഭാഗങ്ങൾ നിർമ്മിക്കുക എന്നതാണ് തുടർന്ന് അവ ഒരുമിച്ച് ചേർക്കുക ഉദാഹരണത്തിന് നമുക്ക് ഒരു സിലിണ്ടർ പോലെയുള്ള ഒന്ന് ഉണ്ട് അതിൽ ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് മൌണ്ട് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അത് ഒരു അറ്റത്ത് ശരിയാക്കണം അത് എങ്ങനെ ചെയ്യാം ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യുന്നത് പതിവുപോലെ ആദ്യം വ്യത്യസ്ത ഭാഗങ്ങൾ നിർമ്മിക്കണം ഒന്ന് സിലിണ്ടർ ഷാഫ്റ്റ് മറ്റൊന്ന് വൃത്താകൃതിയിലുള്ള ഡിസ്ക് അവരെ പരസ്പരം ചേർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു

അത് ചെയ്യുന്നതിന് ആദ്യം സ്കെച്ചിലേക്ക് പോകുക ഫ്രണ്ടൽ പ്ലെയിൻ ഒരു സിലിണ്ടർ നിർമ്മിക്കുക ആദ്യം നമ്മൾ ഒരു സർക്കിൾ നിർമ്മിക്കാൻ പോകുന്നു ഈ സർക്കിൾ അളവ് 20 മില്ലീമീറ്റർ വ്യാസമുള്ളതായിരിക്കണം ഫീച്ചേഴ്സിലേക്ക് പോകുക ബോസ് ബേസ് പുറത്തെടുക്കുക ഇത് ഏകദേശം 100 മില്ലീമീറ്റർ അല്ലെങ്കിൽ 100 യൂണിറ്റുകൾ ആകാം തുടർന്ന് ഓക്കേ ക്ലിക്കുചെയ്യുക അതിനാൽ നമ്മുക്ക് സിലിണ്ടർ ഉണ്ട് ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് ഒബ്ജക്റ്റായി സംരക്ഷിക്കുക എന്നതാണ് അതിനാൽ പാർട്ട് 1 എ പോലുള്ള എന്തെങ്കിലും നൽകിക്കൊണ്ട് സംരക്ഷിക്കുക നമ്മൾ സിലിണ്ടർ ചെയ്തു കഴിഞ്ഞു ഇപ്പോൾ പുതിയൊരെണ്ണം തുറക്കുക വീണ്ടും ഭാഗം ഡ്രോയിംഗ് ഓക്കേ ക്ലിക്കുചെയ്യുക നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് ആഗ്രഹിക്കുന്നുവെങ്കിൽ മുൻവശത്തെ പ്രതലത്തിലേക്ക് പോകുക അതിനാൽ സർക്കിൾ ചെയ്യുക അവിടെ പോയി നിർമ്മിക്കുക ഈ സർക്കിൾ വൃത്താകൃതിയിലുള്ള ഡിസ്ക് നമ്മുക്ക് നിർമ്മിക്കാൻ അത് സിലിണ്ടറിൽ മൌണ്ട് ചെയ്യാൻ പോകുന്നു ഈ സിലിണ്ടറിന്റെ പുറം വ്യാസം 20 മില്ലീമീറ്ററാണ് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഡിസ്ക് 20 മില്ലീമീറ്റർ എന്ന് കരുതപ്പെടുന്ന ആ ഭാഗത്തിനുള്ളിൽ നിർമ്മിക്കാൻ പോകുന്നു അതിനാൽ നമുക്ക് സ്മാർട്ട് അളവുകൾ പോകാം ഇത് 20 മില്ലീമീറ്ററോളം ഉള്ളിൽ പൂർത്തിയാക്കി എന്നാൽ ഇത് ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് ആണ് അതിനാൽ ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് അർത്ഥമാക്കുന്നത് നമ്മൾ വീണ്ടും ഒരു സർക്കിൾ തിരഞ്ഞെടുക്കുക അവിടേക്ക് പോകുക ഒരുപക്ഷേ അത് 45 യൂണിറ്റ് സ്മാർട്ട് അളവുകളായിരിക്കാം ഇപ്പോൾ നമ്മൾ ഒരു വൃത്താകൃതിയിലുള്ള ഡിസ്ക് നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നു അതിനായി ഫീച്ചേഴ്സിലേക്ക് പോകുക നിയന്ത്രണ ഒബ്ജക്റ്റ് ഉപയോഗിച്ച് ഈ രണ്ട് കാര്യങ്ങൾ തിരഞ്ഞെടുക്കുക ബോസ് ബേസ് പുറത്തെടുക്കാൻ പോകുക നമ്മുക്ക് ഒരു സിലിണ്ടർ ഡിസ്ക് ഉണ്ട് ഇപ്പോൾസംരക്ഷിക്കുക Part1b ആയി ഒരേ സ്ഥലത്ത് സംരക്ഷിക്കുക അതിനാൽനമ്മുക്ക് രണ്ട് ഭാഗങ്ങൾ നിർമ്മിക്കാം നമ്മൾ എന്താണ് ചെയ്യേണ്ടത് ഇപ്പോൾ ഈ രണ്ട് ഭാഗങ്ങൾ നിർമ്മിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അതിലൂടെ ഒരൊറ്റ അസംബ്ലിക്ക് ലഭിക്കും അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ പുതിയത് ക്ലിക്കുചെയ്യുക ഇപ്പോൾ അസംബ്ലിക്ക് പോകുക കാരണം നമ്മൾ ഇതിനകം നിർമ്മിച്ച ഭാഗങ്ങൾ ഇപ്പോൾ നമ്മൾ ഒരു അസംബ്ലി നിർമ്മിക്കാൻ പോകുന്നു ഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു നിർദ്ദിഷ്ട ഡയറക്ടറിയിൽ നമ്മൾ നിർമ്മിച്ച ഭാഗങ്ങൾ അത് യാന്ത്രികമായി തിരഞ്ഞെടുക്കും അല്ലെങ്കിൽ ഞങ്ങൾ ബ്രൌസ് ക്ലിക്ക് ചെയ്യുക ഭാഗം 1 നിയന്ത്രണ ഭാഗം 2 ൽ നമ്മുക്ക് താൽപ്പര്യമുള്ള ഭാഗങ്ങൾ തുറക്കുക അപ്പോൾ അത് യാന്ത്രികമായി കാണിക്കും ഇപ്പോൾ അവയെ ക്ലിക്ക് 1 ലൂടെ വിടുക അതുപോലെ ക്ലിക്ക് 2 വഴി വിടുക അതിനാൽ രണ്ട് ഭാഗങ്ങളും ഒരൊറ്റ അസംബ്ലി ഡ്രോയിംഗിൽ ഒരുമിച്ച് കൊണ്ടുവരുന്നു ഇപ്പോൾ ഇത് അതിൽ മൌണ്ട് ചെയ്യണം ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യണം ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്ഥലത്ത് ആ രീതിയിൽ നീക്കാൻ കഴിയും എന്നാൽ ഇവ സിലിണ്ടറിൽ ഉറപ്പിച്ചിട്ടില്ല അവ സ്വതന്ത്രമായി നീങ്ങുന്നു അസംബ്ലി ഡ്രോയിംഗിനായി നമ്മൾ ചെയ്യേണ്ടത് ഈ വസ്തുക്കളുമായി ബന്ധിക്കുക എന്നതാണ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് യോജിപ്പിക്കുന്ന കമാൻഡ് പോലെയുള്ള ഒന്ന് ഉണ്ട് അതിൽ ക്ലിക്കുചെയ്യുക ഇപ്പോൾ ഈ ഉപരിതലവും ആന്തരിക ഉപരിതലവും അവർ പരസ്പരം കണ്ടുമുട്ടണം ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യണം ഇവിടെ നിങ്ങൾക്ക് കോൺസെൻട്രിക് മേറ്റ് കാണാൻ കഴിയും അതിനാൽ അതിൽ ക്ലിക്കുചെയ്യുക നിങ്ങൾ പൂർത്തിയാക്കിക്കഴിഞ്ഞാൽ ഈ ഒബ്ജക്റ്റിന് അതിൽ നിന്ന് ഏകാഗ്രമായി നീങ്ങാൻ കഴിയും എന്നാൽ ഈ ദിശയിൽ സമാന്തരമായി ഈ വൃത്താകൃതിയിലുള്ള ഡിസ്ക് നീക്കാൻ നിങ്ങൾക്ക് കഴിയില്ല അതിനാൽ നിങ്ങൾ അത് നീക്കാൻ ശ്രമിക്കുകയാണെങ്കിലും ഇത് ഏകാഗ്രമായ രീതിയിൽ മാത്രമേ പോകുന്നുള്ളൂ അതിന് എവിടെയും പോകാൻ കഴിയില്ല ഇപ്പോൾ ഈ മുഴുവൻ കാര്യങ്ങളും പരിഹരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ഇവിടെ നിന്ന് ഒരു അറ്റത്തേക്ക് ലോക്കുചെയ്യുക ഉദാഹരണത്തിന് ഇത് അവസാനം വരെ നിലനിർത്താൻ നമ്മൾ ആഗ്രഹിക്കുന്നു അത് ചെയ്യുന്നതിന് ഓക്കേ ക്ലിക്കുചെയ്തതിനുശേഷം ഇപ്പോൾ വീണ്ടും ബന്ധിപ്പിക്കുന്നതിൽ ക്ലിക്കുചെയ്യുക ഉപരിതലങ്ങളിലൊന്ന് തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഈ ആവശ്യത്തിനായി നമുക്ക് ഇത് തിരിക്കാം ഈ നിയന്ത്രണം പിടിച്ച് ഈ ഉപരിതലവും ഈ ഉപരിതല നിയന്ത്രണവും നമുക്ക് ഇത് വീണ്ടും ചെയ്യാം അതിനാൽ ഇതാണ് വസ്തു ഇപ്പോൾ ഈ ഉപരിതലം വൃത്താകൃതിയിലുള്ള ഡിസ്കിൽ എന്തായാലും ഈ ഉപരിതലം ഒന്നായിരിക്കണം അത് ചെയ്യുന്നതിന് നമ്മൾ ചെയ്യേണ്ടത് ക്ലിക്കുചെയ്യുക ഈ ഉപരിതലം തിരഞ്ഞെടുക്കുക നിങ്ങൾ ഉപരിതലം തിരഞ്ഞെടുത്തുകഴിഞ്ഞാൽ അത് ഹൈലൈറ്റ് ചെയ്യപ്പെടും തുടർന്ന് ഈ ഉപരിതലത്തിലേക്ക് പോയി ക്ലിക്കുചെയ്യുക ഈ രണ്ട് കാര്യങ്ങളും യാദൃശ്ചികമാണ് അതിനാൽ ഈ യാദൃശ്ചികത പൂർത്തിയായാൽ ഓക്കേ ക്ലിക്കുചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ആ ഒബ്ജക്റ്റ് ഉണ്ട് ഇപ്പോൾ നിങ്ങൾക്കിത് നീക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽപ്പോലും അവർ ആ വസ്തുവിൽ നിന്ന് പുറത്തുപോകില്ല ഇപ്പോൾ നിങ്ങൾ ഓക്കേ ക്ലിക്കുചെയ്യുകയാണെങ്കിൽ അത് ഒത്തുചേരും അതിനാൽ എനിക്ക് അത് നീക്കാൻ കഴിയില്ല ഇപ്പോൾ ഇത് ഇവിടെ ലോക്കുചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ മറുവശത്ത് ഇത് ലോക്ക് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യണം അതിനായി നമുക്ക് അത് വീണ്ടും ചെയ്യാം ഒന്നാമതായി ഈ ഒബ്ജക്റ്റ് എളുപ്പത്തിൽ ചലിക്കുന്നതിനായി നമ്മൾ അത് പഴയപടിയാക്കുന്നു നമ്മൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഈ ഉപരിതലവും ഈ ഉപരിതലവും കോഇൻസിഡന്റ് അതിനായി നമ്മൾ ചെയ്യേണ്ടത് ഉപരിതലത്തിൽ ഓക്കേ ക്ലിക്കുചെയ്യുക നമുക്ക് പൂർവാവസ്ഥയിലാക്കാം അതിനാൽ മേറ്റ് ക്ലിക്കുചെയ്യുക ആ ഉപരിതലം തിരഞ്ഞെടുക്കുക നിയന്ത്രിക്കുക ഈ ഉപരിതലം തിരഞ്ഞെടുക്കുക ഈ വസ്തുവാണ് നമുക്ക് സൃഷ്ടിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ഇവിടെ ഒരു ഡിസ്ക് കൂടി ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു നമുക്ക് ഒരു കാര്യം കൂടി പുനർനിർമ്മിക്കേണ്ടതില്ല ആ ആവശ്യത്തിനായി നമുക്ക് ചെയ്യാൻ കഴിയുന്നത് നമുക്ക് വീണ്ടും ഒരു ഘടകം കൂടി ഉൾപ്പെടുത്താം അതിനാൽ ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ ഉപരിതലങ്ങളുമായി കൂട്ടിച്ചേർക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു കൂട്ടിച്ചേർക്കുന്നത് ക്ലിക്കുചെയ്യുക ഈ ഉപരിതലവും ഈ ഉപരിതലത്തിന്റെ ആന്തരികവും നമ്മൾ കൂട്ടിച്ചേർക്കാൻ ആഗ്രഹിക്കുന്നു അതിനാൽ ഈ വസ്തു നിങ്ങൾക്ക് നീങ്ങാൻ കഴിയും ഇപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇത് പൂട്ടിയിരിക്കേണ്ടതാണ് ആ ആവശ്യത്തിനായി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഉപരിതലവും ഈ ഉപരിതലവും സംയോജിപ്പിക്കുക എന്നതാണ് കോഇൻസിഡന്റ് അസംബ്ലി ഡ്രോയിംഗ് ഞങ്ങൾ സൃഷ്ടിക്കുന്ന രീതിയാണിത് ഇപ്പോൾ ഈ ഉപരിതലത്തിലേക്ക് ഒരു ടാൻജെന്റ് പോലെയുള്ള ഒന്ന് ലഭിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ഉപരിതലത്തിൽ ഉരുളുന്നത് നമ്മൾ ആഗ്രഹിക്കുന്നു ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യണം ഒരുപക്ഷേ വീണ്ടും ഭാഗം ബി ചേർക്കുക ഇത് തിരഞ്ഞെടുക്കുക അതിനാൽ ഇതാണ് നമ്മുടെ പക്കലുള്ളത് ഇപ്പോൾ ഈ ഉപരിതല ടാൻജെന്റിനെ ഒരു സിലിണ്ടർ പോലെയാക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ഇതാണ് സിലിണ്ടർ പക്ഷേ ടാൻജെന്റ് മാത്രം ഓക്കേ ക്ലിക്കുചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു അതിനായി ഈ ഒബ്ജക്റ്റ് എല്ലായ്പ്പോഴും നമ്മുക്ക് എവിടെനിന്നും നീങ്ങാൻ കഴിയും പക്ഷേ അത് എല്ലായ്പ്പോഴും ആ ഉപരിതലത്തിലേക്ക് ആകർഷകമാണ് നമുക്ക് എന്തുതന്നെ ചെയ്താലും അത് എല്ലായ്പ്പോഴും ആ ഉപരിതലത്തോട് സ്പർശിക്കുക ഇപ്പോൾ ഈ ഉപരിതലത്തിൽ ഈ ഉപരിതലം ലോക്കുചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നു അവ പരസ്പരം സ്പർശിക്കണം ആ ആവശ്യത്തിനായി നമ്മൾ എന്തുചെയ്യണം ഈ ഉപരിതലവും ഈ ഉപരിതലവും കൂട്ടിച്ചേർക്കുന്നത് ക്ലിക്കുചെയ്തതിനുശേഷം അവ കോഇൻസിഡന്റ് തരത്തിലുള്ള ഉപരിതലമാണെന്ന് നിങ്ങൾ കാണുന്നു അതാണ് ഇത് തിരഞ്ഞെടുക്കുന്നതിന് കാരണം ഇപ്പോൾ ഓക്കേ ക്ലിക്കുചെയ്യുക അത് ചെയ്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒബ്ജക്റ്റ് നീക്കാൻ താൽപ്പര്യമുണ്ടെങ്കിൽ അത് ആ ഉപരിതലത്തിലേക്ക് തിരിയുകയും ആ ഉപരിതലത്തിലേക്ക് സ്പർശിക്കുകയും ചെയ്യുന്നു ലളിതമായ അസംബ്ലി ഡ്രോയിംഗ് നിങ്ങൾ നിർമ്മിക്കുന്ന രീതി ഇതാണ് അടുത്ത ക്ലാസ്സിൽ പൈപ്പുകൾ എങ്ങനെ നിർമ്മിക്കാം പൊള്ളയായ പൈപ്പുകൾ ഈ പൈപ്പുകളിൽ എങ്ങനെ ത്രെഡുകൾ നിർമ്മിക്കാം എന്നതിനെക്കുറിച്ച് നമ്മൾ അറിയും